തിരികെ സ്വാഗതം ഇത് സിസ്റ്റം ഓഫ് ലീനിയർ സമവാക്യങ്ങളെക്കുറിച്ചുള്ള ലെക്ച്ചർ നമ്പർ 38 ആണ് മുമ്പത്തെ ലെക്ച്ചർൽ അവതരിപ്പിച്ച ഗ്വോസ്സ് എലിമിനേഷൻ ടെക്നിക്കനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും ഇന്ന് നമ്മൾ കൂടുതൽ പൊതുവായ ഒരു കേസിലേക്ക് പോകും അവിടെ എക്കലോൺ ഫോം കാണും വളരെ പ്രധാനപ്പെട്ട റെഡ്യൂസ്ഡ് ഫോം അവിടെ നമുക്ക് സമവാക്യങ്ങളുടെ സിസ്റ്റത്തിന്റെ സൊല്യൂഷന്റെ കോൺസിസ്റ്റൻസി യെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയും അതിനാൽ ലളിതമായ ഉദാഹരണത്തിന്റെ സഹായത്തോടെ മുമ്പത്തെ ലെക്ച്ചർൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങാം ഇപ്പോൾ നമ്മൾ മാട്രിക്സ് A ഉള്ള ഒരു സാധാരണ ഉദാഹരണം പരിഗണിക്കും അതിൽ m വരികളും n നിരകളും ഉണ്ട് തുടർന്ന് നമുക്ക് ഈ ഉണ്ട് അതോടൊപ്പം വലതുവശത്തെ വെക്റ്റർ ഉം ഉണ്ട്

മുമ്പത്തെ ലെക്ച്ചർൽ നമ്മൾ ഇതിനകം എക്കലോൺ ഫോം എന്താണെന്ന് പൊതുവായി അവതരിപ്പിച്ചു ഈ എക്കലോൺ ഫോംന് ഈ ഫോം ഉണ്ടാകും ഇത് കൃത്യമായി ഇവിടെ ചർച്ചചെയ്യാം അതിനാൽ ഈ ചിഹ്നം ഇവിടെ സൂചിപ്പിക്കുന്ന ഈ ഘടകങ്ങൾ ഇവയാണ് പിവറ്റ് എലെമെന്റുകൾ ഇവ നോൺസീറോ എലെമെന്റുകളാണ് ഈ പിവറ്റ് എലെമെന്റുകളുടെ പ്രോപ്പർട്ടി എന്താണ് അതിനാൽ ഇതിന് താഴെയുള്ള എല്ലാം 0 ആകുമ്പോൾ ഈ നമ്പറിനെ ഈ മാട്രിക്സിൽ നമ്മൾ പിവറ്റ് എന്ന് വിളിക്കും കൂടാതെ ഇടത് ഭാഗവും ഇത് ആദ്യത്തെ ഘടകമാണ് അതിനാൽ ഇടത്തോട്ടുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതില്ല ഉദാഹരണത്തിന് ഇത് ഇവിടെയാണ് പിവറ്റ് എലമെന്റ് കാരണം ഇടതുവശത്തുള്ള എല്ലാ ഘടകങ്ങളും 0 ഉം ഇവിടെയും എല്ലാ ഘടകങ്ങളും 0 ഉം ഈ സബ് മാട്രിക്സിൽ എല്ലാം 0 ഉം ആണ് അതിനാൽ ഇതിനെ നമ്മൾ പിവറ്റ് എലമെന്റ് എന്ന് വിളിക്കുന്നു അതുപോലെ ഇത് ഒരു നോൺസീറോ എലെമെന്റ് ആണെങ്കിൽ ഇത് ഒരു പിവറ്റ് ആണ് ഇതിൻറെ ഇടതുവശത്തുള്ളതെല്ലാം 0 ഉം താഴേക്കുള്ളതെല്ലാം 0 ഉം ആണ് അതിനാൽ അതാണ് പിവറ്റിന്റെ പ്രോപ്പർട്ടി അത് ഒരു നോൺസീറോ നമ്പറും ഇവയ്ക്ക് ചുവടെയുള്ള എല്ലാ എലെമെൻറുകൾഉം 0 ആണ് അതുപോലെ ഇതിൻറെ ഇടതുവശത്തുള്ള എല്ലാ എലെമെൻറുകൾഉം 0 ആണ് ഈ പ്രത്യേക ഘടനയുള്ള മാട്രിക്സിനെ എക്കലോൺ ഫോം എന്ന് വിളിക്കുന്നു നമുക്ക് ഇവയിൽ ആദ്യ കുറച്ച് വരികളുണ്ട് നോൺസീറോ വരികളാണ് ഇവിടെ കാണുന്ന അവസാനത്തെ കുറച്ച് വരികളുണ്ട് അവ 0 വരികളാണ് ചുവടെയുള്ള ഈ വരികളെല്ലാം 0 യായി സെറ്റ് ചെയ്തിട്ടുണ്ട് വലതുവശത്ത് ഈ ചിഹ്നമാണ് ഈ ഘടകങ്ങൾ 0 ആകാം അല്ലെങ്കിൽ അവ 0 ആയിരിക്കില്ല ഇത് പൊതുവെ ഈ എക്കലോൺ ഫോമിനെ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഇവിടെ എല്ലായ്പ്പോഴും ഈ പിവറ്റ് ഘടകങ്ങൾ ഉണ്ട് അവ എല്ലായ്പ്പോഴും നോൺസീറോ ഘടകങ്ങളാണ് ഇപ്പോൾ അതേ ഐഡന്റിഫിക്കേഷൻ ഇവിടെ ഇവ പിവറ്റ് എലെമെന്റുകൾ ആണ് അവ നോൺസീറോ ആണ് മറ്റു എലമെൻറ്കൾക്ക് ഈ സ്റ്റാർ ചിഹ്നം ഉപയോഗിക്കുന്നു ഇവ 0 ആകാം അവ 0 അല്ലാതെയും ആകാം പക്ഷേ ഇവിടെ പ്രധാനം ഈ എക്കലോൺ രൂപത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ഈ മാട്രിക്സ് ഈ ഘടനയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇവിടെ ഇത് സ്റ്റെപ്പ് പോലെയുള്ള ഘടനയാണ് ഈ ഫോമിലേക്ക് ഇടുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അതിനാൽ ഈ ഘടനയുടെ അടിയിൽ ഈ 0 കൾ ഉള്ളതിനാൽ ഇവിടെ ഈ പടികൾ പോലെയാണ് ഘടന പൂജ്യ വരികളുണ്ടെങ്കിൽ അവ ഈ മാട്രിക്സിന്റെ ഈ അടിയിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് ഈ b യുമായി അനുബന്ധിച്ചുള്ള ഈ ഓഗ്മെന്റഡ് പാർട്ടിൽ ഈ ഘടകങ്ങൾ 0 ആയിരിക്കാം 0 അല്ലാതിരിക്കാം അതിനാൽ ഒരിക്കൽ നമ്മൾ റെഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഈ എക്കലോൺ ഫോം എങ്ങനെ കൃത്യമായി നേടാം എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി പൊതുവായ ഒരു ഉദാഹരണം കാണാം അതിനാൽ ഈ ഗ്വോസ്സ് എലിമിനേഷന് അടിസ്ഥാനപരമായി മൂന്ന് ഘട്ടങ്ങളാണുള്ളതെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ആദ്യത്തേത് നിങ്ങളുടെ സിസ്റ്റത്തെ ഈ ഓഗ്മെന്റഡ് മാട്രിക്സിലേക്ക് ഇടുക തുടർന്ന് നമ്മൾ വിളിക്കുന്ന ഈ എക്കലോൺ രൂപത്തിലേക്ക് ആഗ്മെന്റഡ് മാട്രിക്സ് റെഡ്യൂസ് ചെയ്യുക തുടർന്ന് ഈ പിവറ്റ് ഘടകങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ മാട്രിക്സിന്റെ പ്രധാന ഘടകങ്ങളാണ് പിവറ്റ് ഘടകം കൂടാതെ ഈ പിവറ്റ് ഘടകങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒരു യൂനിക് സൊല്യൂഷനുണ്ടാകാൻ പോകുകയാണോ അല്ലെങ്കിൽ സൊല്യൂഷൻ നിലവിലില്ലേ എന്നോ അല്ലെങ്കിൽ നമുക്ക് അനന്തമായ നിരവധി സൊല്യൂഷനുകൾ ഉണ്ടോ എന്നിങ്ങനെ സൊല്യൂഷനെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയും ഈ കോൺസിസ്റ്റൻസിയുടെ രൂപത്തിൽ നമുക്ക് സിസ്റ്റത്തിന്റെ സ്വഭാവം കാണിക്കാൻ കഴിയും അതിനാൽ ഇത് എക്കലോൺ രൂപത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഒരിക്കൽ എക്കലോൺ ഫോം ലഭിച്ചുകഴിഞ്ഞാൽ എക്കലോൺ ഫോമിൽ നിന്ന് സൊല്യൂഷൻ ലഭിക്കുന്നത് ഈ ബാക്ക് സബ്സ്റ്റിട്യൂഷനിലൂടെ മാത്രമാണ് മുൻ ലെക്ച്ചറിലെ ലളിതമായ ഉദാഹരണങ്ങളിൽ നമ്മൾ നിരീക്ഷിച്ചു അതിനാൽ ഇവയെ പിവറ്റ് വരികൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ നമ്മൾ ഈ പിവറ്റ് വരികൾ മുകളിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ഞങ്ങളുടെ മാട്രിക്സ് എയിൽ എന്തെങ്കിലും 0 ആണെങ്കിൽ നമ്മൾ മാട്രിക്സിന്റെ ഈ അടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതിനാൽ ഇവ പിവറ്റ് വരികളാണ് കാരണം ഓരോ വരികൾക്കും ഇപ്പോൾ ഇവിടെ ഒരു പിവറ്റ് ഉണ്ട് ഓരോ വരികൾക്കും ഒരു പിവറ്റ് ഉണ്ട് ഇവയാണ് പ്രധാന വരി പിവറ്റ് വരികൾ ബാക്കിയുള്ളവയെ പൂജ്യം വരികൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇവ സംഖ്യയിലെ r ആണെങ്കിൽ സാധാരണയായി പിവറ്റ് വരികൾക്കായി നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ അതിനാൽ ഇവ r വരികളാണെങ്കിൽ നമുക്ക് ആകെ m വരികളാണുള്ളത് അതിനാൽ സ്വാഭാവികമായും ഈ പൂജ്യം വരികൾ m മൈനസ് r ആയിരിക്കും ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഘടനയാണ് ഇത് ഉള്ളതിനാൽ റാങ്കിനെക്കുറിച്ച് ഒരു നിർവചനം ഇവിടെ ഞാൻ അവതരിപ്പിക്കാം നിങ്ങൾക്ക് ഈ റാങ്കിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിയും കാരണം ഇത് റാങ്കിന്റെ ഏക നിർവചനം അല്ല ഈ റാങ്കിന് മറ്റ് നിരവധി നിർവ്വചനങ്ങൾ ഉണ്ട് എന്നാൽ ഇവയിലൊന്നാണ് മാട്രിക്സിന്റെ റാങ്ക് എന്നാൽ പിവറ്റുകളുടെ എണ്ണം എന്ന് നിർവചിച്ചിരിക്കുന്നത് കാരണം പിന്നീട് നിങ്ങൾ ഇതര നിർവ്വചനത്തിൽ നിരീക്ഷിക്കും ഇത് വീണ്ടും റാങ്ക് r പിവറ്റുകളുടെ എണ്ണം അതുകൊണ്ടാണ് ഈ പിവറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ഈ പിവറ്റ് ഘടകങ്ങളുടെ തിരിച്ചറിയൽ വളരെ പ്രധാനമായത് ഇവിടെ മാട്രിക്സിന്റെ റാങ്ക് എന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആശയം ആണ് അത് ഈ സംഖ്യ r ആയി നിർവചിക്കപ്പെടുന്നു ഇത് പിവറ്റുകളുടെ എണ്ണമാണ് അതിനാൽ ഈ നിർവചനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുകയും പിന്നീട് ഈ റാങ്കിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ചെയ്യും അതിനാൽ ഈ ഓഗ്മെന്റഡ് മാട്രിക്സിലെ റാങ്ക് r പിവറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ ഓഗ്മെന്റഡ് മാട്രിക്സിൽ നിന്ന് നമുക്ക് നിരവധി കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും ഇവിടെയുള്ള ഒന്ന് ഈ ഘടകങ്ങൾ ഈ പൂജ്യ വരികളിലാണെങ്കിൽ അവ 0 ന് തുല്യമല്ലെങ്കിൽ സമവാക്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് പൊരുത്തമില്ലാത്തത് കാരണം 0 എന്നത് മറ്റെന്തോ സീറോ അല്ലാത്തതിനോട് തുല്യമാണ് എന്ന് ലഭിക്കും അത് മുമ്പത്തെ ലെക്ച്ചർൽ നമ്മൾ ഇതിനകം ചർച്ചചെയ്ത കാര്യമാണ് അതിനാൽ നമ്മുടെ എക്കലോൺ രൂപത്തിൽ ഇവയെ നോൺസീറോ നമ്പറായി ലഭിച്ചെങ്കിൽ സിസ്റ്റം പൊരുത്തമില്ലാത്തതും സിസ്റ്റത്തിന് സൊല്യൂഷനില്ലെന്നർത്ഥം അതിനാൽ ഈ എക്കലോൺ ഫോമിൽ നിന്ന് അല്ലെങ്കിൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ ഐഡന്റിഫിക്കേഷൻ അതാണ് കാരണം മാട്രിക്സിന്റെ റാങ്ക് ഈ നമ്പർ r ഉപയോഗിച്ച് നമ്മൾ ഇതിനകം നിർവചിച്ചിട്ടുണ്ട് r ന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് എന്താണോ ഇത് മാട്രിക്സുമായി യോജിക്കുന്നു ഈ ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ ഈ ആദ്യ ഭാഗവും ഇവിടെ രണ്ടാമത്തേത് ഈ നിര bയും ആയിരുന്നു മുഴുവൻ മാട്രിക്സും നമ്മൾ എന്ന് വിളിക്കുന്നു ഈ ഓഗ്മെന്റഡ് മാട്രിക്സ് അതിനാൽ ഈ അവസ്ഥയിലെ പോയിന്റ് ഇവിടെ A യുടെ റാങ്ക് എന്താണ് എന്നതാണ് റാങ്ക് എന്നത് ഈ മാട്രിക്സിൽ എത്ര പിവറ്റുകൾ ഉണ്ട് എന്ന എണ്ണം ആണ് r പിവറ്റുകൾ ഉണ്ട് അതിനാൽ A യുടെ റാങ്ക് r ആയിരിക്കും പക്ഷേ ഇവ നോൺസീറോ എലെമെന്റുകൾ ആണെങ്കിൽ ഇവിടെ ഒരു പിവറ്റും ഉണ്ടാകും അതിനാൽ ഇവയെല്ലാം 0 ആക്കി റെഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് കഴിയും മാത്രമല്ല ഇവിടെ ഒരു സമവാക്യത്തിൽ എങ്കിലും നോൺസീറോ നമ്പറായിരിക്കും സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് കാരണം അവയിലൊന്ന് നോൺസീറോ ഉള്ളപ്പോഴെല്ലാം ഈ പൂജ്യം വരികളോട് യോജിക്കുന്ന ഒരു നോൺസീറോ നമ്പറാണെന്ന് വ്യക്തമാണ് അപ്പോൾ സിസ്റ്റം പൊരുത്തപ്പെടുന്നില്ല പക്ഷേ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ ഒരു മാട്രിക്സിന്റെ റാങ്ക് എന്ന് വിളിക്കാം ഇവിടെ റാങ്ക് എന്നത് r ആണ് ആണ് അതായത് പിവറ്റ് എലെമെന്റുകളുടെ എണ്ണം കൂടാതെ ഇത് ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ മൊത്തത്തിലുള്ള റാങ്കിന് തുല്യമല്ല കാരണം ഈ സാഹചര്യത്തിൽ ഇവ നോൺസീറോ നമ്പറുകളായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും തുടർന്ന് ഈ മാട്രിക്സിന്റെ ഈ റാങ്ക് അതായത് മുഴുവൻ മാട്രിക്സിലെയും പിവറ്റുകളുടെ എണ്ണം റാങ്ക് യേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകും അതിനാൽ ഈ രണ്ട് മെട്രിക്സുകളുടെ റാങ്കും റാങ്ക് യും ഈ ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്കും വ്യത്യസ്തമാണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിന്റെ ഇൻകൺസിസ്റ്റൻസികളുണ്ട് കൂടാതെ പൂജ്യം വരികളുമായി സമാനമായി നമുക്ക് നോൺസീറോ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റൻസി സംഭവിക്കും ഈ സന്ദർഭത്തിൽ അവസാന നിരയിലും അല്ലെങ്കിൽ മറ്റൊരു നിരയിലും ഇവിടെ ഒരു പിവറ്റ് ഘടകം ഉണ്ടെന്ന് നമ്മൾ വിളിക്കുന്നു ഇത് കൃത്യമായി ഈ പൊരുത്തക്കേടിന്റെ കാര്യമാണ് പല തരത്തിൽ നമുക്ക് ഇത് ചർച്ചചെയ്യാം കാരണം ഇത് 0 ന് തുല്യമല്ല അതിനാൽ പൊരുത്തമില്ലാത്തത് അല്ലെങ്കിൽ ഈ വലതുവശത്തെ നിരയ്ക്ക് ഒരു പിവറ്റ് ഘടകമുണ്ടെന്ന് നമ്മൾ വിളിക്കുന്നു ഇത് ഇവിടെ നോൺസീറോ അല്ലാതെ ഇരിക്കുമ്പോൾ ഇത് സംഭവിക്കും ഈ നമ്പറുകളിലൊന്ന് നോൺസീറോ ആണ് അതിനാൽ നമുക്ക് ഒന്നുകിൽ വലതുവശത്തു അങ്ങേ അറ്റത്തുള്ള കോളത്തിന് ഒരു പിവറ്റ് ഉണ്ട് അല്ലെങ്കിൽ റാങ്ക് ആഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്കിന് തുല്യമല്ല എങ്കിൽ അല്ലെങ്കിൽ ഇതിലേക്ക് നോക്കുമ്പോൾ എലെമെന്റ് നോൺ സീറോ എങ്കിൽ നമുക്ക് വ്യക്തമായും ഒരു സൊല്യൂഷനുമില്ല എന്ന് പറയാം ഇപ്പോൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സാധ്യത ഇത് 0 ആകുമ്പോൾ ആയിരിക്കും അതിനാൽ ഈ ഘടകങ്ങൾ ഇവിടെ 0 ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻസി പുലർത്തുന്നു കാരണം 0 പോലെയുള്ള ഒന്നും ആ സാഹചര്യത്തിൽ നോൺസീറോയ്ക്ക് തുല്യമായി ഇല്ല അതിനാൽ ഇവ 0 ആണെങ്കിൽ നമ്മൾക്ക് രണ്ട് സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കാരണം Ax0 എല്ലായ്പ്പോഴും കൺസിസ്റ്റൻസിയുള്ളത് ആണ് കാരണം ഇവിടെ നിന്ന് വരുന്ന ഉൾപ്പെടുത്തലാണ് ഈ b0 ഉള്ളപ്പോൾ ഇത് ശരിയാണ് കോളത്തിലെ എല്ലാ എലെമെന്റുകളും 0 ആണ് അതിനാൽ സ്വാഭാവികമായും ഈ സംഖ്യകൾ എല്ലാം 0 ആയിരിക്കും നമ്മൾ തുടക്കം മുതൽ റോ ഓപ്പറേഷനുകൾ മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ ഒന്നും മാറില്ല നമുക്ക് Ax0 ആകുമ്പോൾ അവ തീർച്ചയായും 0 ആയിരിക്കും അതിനാൽ സിസ്റ്റം എല്ലായ്പ്പോഴും കൺസിസ്റ്റൻസിയുള്ളതാണ് അതായത് ഈ Ax0 യ്ക്ക് എല്ലായ്പ്പോഴും ഒരു സൊല്യൂഷനുണ്ടാകും അതിനാൽ എന്തായാലും പിന്നീട് കുറച്ചുകൂടി സംസാരിക്കും ഇപ്പോൾ ഇവിടെ എല്ലാം പൂജ്യമാണെന്ന ഈ കേസ് എടുക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്നതാണ് അതോടൊപ്പം ഇവിടെ രണ്ട് കേസുകളുണ്ട് ആദ്യത്തേത് പിവറ്റ് എലമെൻറ്കളുടെ എണ്ണം അൺനോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് എന്നതാണ് ഈ സന്ദർഭവും അവസാന ലെക്ച്ചറിൽ നമ്മൾ കണ്ടു ഓരോ നിരയ്ക്കും കൃത്യമായി ഒരു പിവറ്റ് ഉള്ളപ്പോൾ ഇത് സംഭവിക്കുന്നു കാരണം കോളങ്ങൾ അൺനോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അതിനാൽ ഓരോ കോളത്തിനും ഒരു പിവറ്റ് ഉണ്ടെങ്കിൽ സിസ്റ്റത്തിന് ഒരു യൂനിക് സൊല്യൂഷനുണ്ട് കാരണം കോളത്തിനു ഒന്നിൽ കൂടുതൽ പിവറ്റ് ഉണ്ടാകാൻ കഴിയില്ല ഈ പ്രോപ്പർട്ടി കാരണം ഇതിന് താഴെയുള്ള എല്ലാം 0 ആയിരിക്കണം അതിനാൽ ഓരോ നിരയ്ക്കും ഒരു പിവറ്റും ഈ നമ്പറും മാത്രമേ ഉണ്ടാകൂ പിവറ്റിന്റെ എണ്ണം അൺനോണുകളുടെ എണ്ണത്തിന് തുല്യം എന്നതിനർത്ഥം ഓരോ നിരയ്ക്കും ഒരു പിവറ്റ് ഉണ്ടെന്നാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ സിസ്റ്റത്തിന് യൂനിക് സൊല്യൂഷനുണ്ടാകും ഇവയെല്ലാം ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമ്മൾ ഇന്ന് തന്നെ ചർച്ച ചെയ്യും അതിനാൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റാങ്ക് റാങ്ക് എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവ ഇപ്പോൾ സമാനമായിരിക്കും അത് ഈ r ന് തുല്യമാണ് അല്ലെങ്കിൽ ഈ n ന് തുല്യമാണ് അതിനാൽ റാങ്കിന്റെ കാര്യത്തിൽ അതാണ് സ്ഥിതി പിന്നീട് നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്യും ഇപ്പോൾ മറ്റൊരു സാധ്യതയിലേക്ക് വരുന്നത് ഇത് 0 ആണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസിയുണ്ടെന്നും പിവറ്റ് ഘടകങ്ങളുടെ എണ്ണം അൺനോണുകളുടെ എണ്ണത്തേക്കാൾ കുറവാണെന്നും അർത്ഥമാക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും സിസ്റ്റത്തിന് ഇങ്ങനെയാകുമ്പോൾ അനന്തമായ സൊല്യൂഷനുകൾ ഉണ്ടാകും അവിടെ നമ്മൾ ഈ ഫ്രീ വേരിയബിളുകളുടെയും ഡിപൻഡന്റ് വേരിയബിളുകളുടെയും ആശയം അവതരിപ്പിക്കും അതിനുശേഷം നമുക്ക് സൊല്യൂഷൻ നേടാം ചിലത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും അവ അനന്തമായ നിരവധി സൊല്യൂഷനുകൾ അല്ലെങ്കിൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും പറയും കൺസിസ്റ്റൻസി റാങ്ക് A റാങ്ക് എന്നായിരിക്കണം പക്ഷേ ഈ റാങ്ക് അൺനോണുകളുടെ എണ്ണത്തിനേക്കാൾ കുറവാണ് റാങ്കിന്റെ കാര്യത്തിലും ഈ കൺസിസ്റ്റൻസിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഇതാണ് അടുത്തതായി പ്രശ്നത്തിലേക്ക് വരുന്നു നമ്മൾ ഇപ്പോൾ Axb എന്ന സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ചർച്ച ചെയ്യും ഇവിടെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഓഗ്മെന്റ് മാട്രിക്സ് എഴുതിയിരിക്കുന്നു

നമുക്ക് 4 വരികളുണ്ട് കൂടാതെ 5 നിരകളുമുണ്ട് അതിനാൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ 5 അൺനോണുകളുടെ ഉള്ള ഒരു കേസാണിത് നിരകളുടെ എണ്ണം അർത്ഥമാക്കുന്നത് അൺനോണുകളുടെ എണ്ണമാണ് കാരണം ഇവിടെ ഇത് A ആണ് കൂടാതെ നമ്മുടെ സിസ്റ്റവും Axb എന്നാണ് അതിനാൽ x Aയുമായി ഈ സിസ്റ്റത്തെ കൺസിസ്റ്റന്റ് ആക്കുന്നതിന് എന്നിവപോലുള്ളവ ഉണ്ടായിരിക്കണം അതിനാൽ 5 അൺനോണുകളുണ്ട് അതിനാൽ ഈ 5 നിരകൾ ഓരോ നിരയ്ക്കും ഇത് ഇത് ഇത് ഇത് ഇത് എന്നിവയുമായി യോജിക്കും അതിനാൽ A യുടെ നിരകളുടെ എണ്ണം എല്ലായ്പ്പോഴും ഞാൻ A എന്നതിന്റെ അർത്ഥത്തെ പ്രതിനിധീകരിക്കുന്നത് മുഴുവൻ ഓഗ്മെന്റഡ് മാട്രിക്സും അല്ല ഇത് b യുമായി യോജിക്കുന്നു അതാണ് ഇവിടെയുള്ളത് അതിനാൽ ഇതിലെ നിരകളുടെ എണ്ണം നമ്മളുടെ സിസ്റ്റത്തിലെ ഘടകങ്ങളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കും അതിനാൽ ഇവ അവയുടെ 5 അൺനോണുകളാണ് ഈ യഥാർത്ഥ സംഖ്യയിൽ ഉൾപ്പെടുന്ന മറ്റൊരു ബീറ്റ ഇവിടെ ഇരിക്കുന്നു ഈ ബീറ്റ ഒരു യഥാർത്ഥ സംഖ്യയാണ് ബീറ്റയുടെ ഏതൊക്കെ മൂല്യങ്ങൾക്ക് നമ്മൾക്ക് സിസ്റ്റത്തിന്റെ സൊല്യൂഷനുണ്ട് അല്ലെങ്കിൽ സൊല്യൂഷനില്ലെന്ന് നമ്മൾ ചർച്ച ചെയ്യും ഈ കൺസിസ്റ്റൻസി ഭാഗങ്ങളെല്ലാം ഈ പ്രത്യേക കേസിൽ ബീറ്റയെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഗ്വോസ്സ് എലിമിനേഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ എക്കലോൺ ഫോമിലേക്കുള്ള റിഡക്ഷൻ ടെക്നിക്കിനെക്കുറിച്ചോ എന്താണ് ഈ ഓഗ്മെന്റഡ് മാട്രിക്സിൽ നിന്ന് എക്കലോൺ ഫോം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആദ്യ ഘട്ടത്തിൽ ഈ നമ്പറുകൾ ഇവിടെ 2 1 3 0 ഈ വരിയിൽ നിന്ന് അതിനാൽ ഈ വരിയിൽ നിന്ന് ഒന്നാം വരിയുടെ രണ്ട് മടങ്ങ് കുറച്ചാൽ ഇത് 0 ആക്കി സജ്ജമാക്കുകയെന്നതാണ് നമ്മളുടെ ശ്രദ്ധ അതിനനുസരിച്ച് ബാക്കിയെല്ലാം മാറും എന്നാൽ നമ്മൾ ഈ x1 സമവാക്യ നമ്പർ 2 ൽ നിന്ന് ഒഴിവാക്കും സമവാക്യം നമ്പർ 3 ൽ നിന്നും ഈ സമവാക്യം 4 ൽ നിന്നും x1 ന് തുല്യമായവ ഒഴിവാക്കും അതിനാൽ അതിനായി നമ്മൾ ഈ എലെമെന്ററി ഓപ്പറേഷനുകൾ നടത്തേണ്ടതുണ്ട്

അതിനാൽ ഈ കേസിൽ കുറയ്ക്കാൻ നമ്മൾക്ക് ഇപ്പോൾ ഒന്നും ഇല്ലാത്ത റെഡ്യൂസ്ഡ് ഫോം ഇതാണ് അതിനാൽ ഇതാണ് കുറച്ച ഫോം ആദ്യത്തെ കേസ് ആയിരിക്കുമ്പോൾ ഉള്ളത് നമ്മൾ എടുക്കുന്നു ആയിരിക്കുമ്പോൾ നമ്മൾ ഈ കേസ് എടുക്കുകയാണെങ്കിൽ അതായത് എന്തോ നോൺസീറോ ഇവിടെ ഇരിക്കുന്നു നോൺസീറോ എന്തെങ്കിലും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവസാന നിരയ്ക്ക് പിവറ്റ് ഉണ്ട് എന്നാണ് അതിനർത്ഥം നമുക്ക് പൊരുത്തമില്ലാത്ത ഒരു സിസ്റ്റം ഉണ്ടെന്നും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 0 എന്നത് നോൺസീറോയ്ക്ക് തുല്യമാണ് അതിനാൽ രണ്ടായാലും ഈ β ≠ 1 എന്ന കേസിൽ സിസ്റ്റം പൊരുത്തമില്ലാത്തതിനാൽ നമ്മൾക്ക് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻവുമില്ല അതിനാൽ ഇതിനർത്ഥം ഇത് കൃത്യമായി സൊല്യൂഷനില്ലാത്ത സാഹചര്യമാണ് കേസ് 2 β 1 ആയിരിക്കുമ്പോൾ നമ്മൾ പരിഗണിക്കും അതിനാൽ β 1 ആയിരിക്കുമ്പോൾ സൊല്യൂഷനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടാണ് ചർച്ചചെയ്യുന്നത് കാരണം സിസ്റ്റം ഇപ്പോൾ കോൺസിസ്റ്റൻസി കൈവരിക്കുന്നു അവസാന വരി 0 ആയി അതിനാൽ ഇപ്പോൾ ഈ സിസ്റ്റം കോൺസിസ്റ്റൻസി പുലർത്തുന്നു അവസാന നിരയിൽ നമ്മൾക്ക് ഇപ്പോൾ പിവറ്റ് ഇല്ല അതിനാൽ പിവറ്റുകളെ നമുക്ക് തിരിച്ചറിയാം കാരണം ഇത് മറ്റൊരു പ്രധാന ഘട്ടമാണ് ആദ്യ നിരയിലെ പിവറ്റ് ഇതാണ് ഇത് പിവറ്റ് അല്ല അതിനാൽ ഓരോ വരിയിലും ഓരോ നിരയിലും ഒരു പിവറ്റ് ഉണ്ടായിരിക്കും ഇത് ഇവിടെയും ശരിയാണ് കാരണം ഇത് പിവറ്റ് ആണെങ്കിൽ മറ്റൊന്നും പിവറ്റ് ആകാൻ കഴിയില്ല കാരണം 2 പിവറ്റ് ആകാൻ കഴിയില്ല ഇത് നോൺസീറോ ആയിരിക്കുന്ന ഒന്നിൻറെ ഇടതുവശത്താണ് എടുക്കുക തുടർന്ന് എന്നിവ ലഭിക്കുന്നു അതിനാൽ ഈ നമ്മൾ ഇവിടെ ഫ്രീ വേരിയബിളുകളായി അടയാളപ്പെടുത്തി ഈ നിരയ്ക്ക് ഒരു പിവറ്റ് ഉണ്ട് അതിനാൽ ഇത് ഫ്രീ വേരിയബിളായി എടുക്കാത്ത ന് സമാനമാണ് ഇതിനെ ഡിപൻഡന്റ് വേരിയബിളുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ഡിപെൻഡൻന്റ് ആണ് ഇത് ഫ്രീയല്ല നമ്മൾക്ക് അവിടെ പിവറ്റ് ഉണ്ട് അതിനാൽ നമുക്ക് ഒരു പിവറ്റ് ഉള്ളിടത്തെല്ലാം അവയെ ആശ്രിത വേരിയബിളുകളായി അടയാളപ്പെടുത്തി നമുക്ക് ഒരു പിവറ്റ് ഇല്ലാത്ത ഇടങ്ങളിലെല്ലാം നമ്മൾ അവയെ ഫ്രീ വേരിയബിൾ എന്ന് അടയാളപ്പെടുത്തും അത് ഒരു ലളിതമായ അൽഗോരിതം ആണ് നമ്മൾ ഇവിടെ പിന്തുടരും ഈ രീതിയിൽ തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യം അല്ല പക്ഷേ ഇത് വളരെ ചിട്ടയായ സമീപനമാണ് അതിനാൽ കോളം 1 ലേക്ക് പോകുക അതിന് ഒരു പിവറ്റ് ഘടകമുണ്ടെങ്കിൽ ഇത് ഒരു ആശ്രിത വേരിയബിളായി അടയാളപ്പെടുത്തുക അടുത്ത നിര 2 ലേക്ക് പോകുക ഇതിന് ഒരു പിവറ്റ് ഘടകമില്ല നിര 2 ൽ പിവറ്റ് ഘടകങ്ങളൊന്നുമില്ല നമ്മൾ ഒരു ഫ്രീ വേരിയബിളായി അടയാളപ്പെടുത്തും നിര നമ്പർ 3 ന് ഒരു പിവറ്റ് ഉണ്ട് ഇത് ഒരു ആശ്രിത വേരിയബിളായി അടയാളപ്പെടുത്തുന്നു വീണ്ടും നിര 4 ന് ഒരു പിവറ്റ് ഉണ്ട് അതിനാൽ ഇത് നമ്മൾ ഒരു ആശ്രിത വേരിയബിളായി അടയാളപ്പെടുത്തി നിര 5 വീണ്ടും ഒരു ഫ്രീ വേരിയബിളായി അടയാളപ്പെടുത്തി കാരണം ഇതിന് ഒരു പിവറ്റ് ഇല്ല ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ പക്കൽ ധാരാളം കാര്യങ്ങൾ ഉണ്ട് കാരണം ഫ്രീ വേരിയബിളുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള മൂല്യങ്ങൾ നൽകാം കൂടാതെ സിസ്റ്റത്തിൽ ഫ്രീ വേരിയബിളുകൾ ഉള്ളപ്പോഴെല്ലാം അതിനർത്ഥം നമുക്ക് അനന്തമായ നിരവധി സൊല്യൂഷനുകളുണ്ട് എന്നതാണ് അതിനാൽ നമുക്ക് ഫ്രീ വേരിയബിളുകൾ ഉള്ളതിനാൽ അനന്തമായ നിരവധി സൊല്യൂഷനുകളുടെ കേയ്സ് ആണിത് ഫ്രീ വേരിയബിളുകൾ എന്നത് അർത്ഥമാക്കുന്നത് അവ ഫ്രീയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഈ സാഹചര്യത്തിൽ നമുക്ക് വാസ്തവത്തിൽ രണ്ട് ഫ്രീ വേരിയബിളുകൾ ഉണ്ട് അതിനാൽ ഇപ്പോൾ ഇവിടെ വേരിയബിളുകൾ തിരഞ്ഞെടുക്കുക എന്നത് തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് കൂടുതൽ സാധ്യതകളുണ്ട് ഈ ഇവ രണ്ട് ഫ്രീ വേരിയബിളുകളാണ് അതിനാൽ നമ്മൾ എന്നിവ എടുക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സമവാക്യ നമ്പർ 3 ൽ നിന്ന് നമുക്ക് എഴുതാം അതിനാൽ ഇവിടെ നിന്ന് 2 ടൈംസ് നമ്മൾ എടുത്തു അതിനാൽ ഈ നമുക്ക് ന്റെ അടിസ്ഥാനത്തിൽ എഴുതാം അതുപോലെ ഈ സമവാക്യ നമ്പർ 2 ൽ നിന്നുള്ള ഈ സ്വതന്ത്ര വേരിയബിളുകളെ ആശ്രയിച്ച് നമുക്ക് എഴുതാം കൂടാതെ സമവാക്യ നമ്പർ 1 ൽ നിന്നുള്ള ഉം ഈ ഫ്രീ വേരിയബിളുകളായ എന്നിവയിൽ നമുക്ക് എഴുതാം നമുക്ക് അവയുടെ വെക്റ്റർ ഫോം സ്ഥാപിക്കാൻ കഴിയും അതിനാൽ ഓരോന്നിൽ നിന്നും x1 x2 x3 x4 എന്നീ കോൺസ്റ്റന്റുകൾ എഴുതാം അതിനാൽ x1 ൽ നിന്ന് നമുക്ക് ഈ 9 എന്നത് x2 ൽ നിന്ന് മാത്രമായിരുന്നു കോൺസ്റ്റന്റ് ആയി ഒന്നും തന്നെയില്ല ഈ x3 ൽ നിന്ന് നമുക്ക് 4 എന്ന കോൺസ്റ്റന്റും x 4 ൽ നിന്ന് കൃത്യമായി ഒന്നുമില്ല x5 ൽ നിന്നും നമുക്ക് കോൺസ്റ്റന്റയി എടുക്കാൻ ഒന്നുമില്ല പിന്നെ ഈ ഉം പിന്നെ x1 ൽ നിന്നുള്ള ബാക്കിയുള്ളവയും ഉദാഹരണത്തിന് നമ്മൾക്ക് 9 2 ഉണ്ട് നൊപ്പം ഇവിടെ x1 ൽ 9 5 ഉണ്ട് ഇത് ഈ വെക്റ്ററിൽ ഇവിടെ എടുത്തതാണ് അതിനാൽ നമുക്ക് ഈ x 1 x 2 x 3 x 4 x 5 എന്നിവ ഈ പ്രത്യേക രൂപത്തിൽ എഴുതാം അവിടെ നമുക്ക് ഈ സ്വതന്ത്ര വേരിയബിളുകളിൽ നിന്ന് ആദ്യ വെക്റ്റർ സ്വതന്ത്രമാണ് തുടർന്ന് ഇത് ആൽഫ 1 ഒരു ഫ്രീ വേരിയബിൾ വെക്റ്റർ വീണ്ടും ഇവിടെ വരികയും x2 വീണ്ടും ഈ ഫ്രീ വേരിയബിളിനൊപ്പം വീണ്ടും ഈ വെക്റ്റർ വരികയും ചെയ്യുന്നു

അതിനാൽ ഈ ഫ്രീ വേരിയബിളുകൾ അനന്തമായ നിരവധി സൊല്യൂഷനുകൾക്ക് ഉത്തരവാദികളാണെന്ന് പ്രസ്താവിക്കാം അതിനാൽ ഉപസംഹാരമായി പറയാവുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ഫ്രീ വേരിയബിളുകൾ ഉള്ളപ്പോഴെല്ലാം അതിനർത്ഥം ചില നിരകൾക്ക് ഒരു പിവറ്റ് ഇല്ല അത്തരം സന്ദർഭങ്ങളിൽ അനന്തമായ നിരവധി സൊല്യൂഷനുകളുടെ ഒരു കേസ് ഉണ്ടാകും ഒരു ഇൻവെർട്ടിബിൾ മാട്രിക്സിൽ ഒരു ഫ്രീ വേരിയബിളില്ല കാരണം വ്യക്തമാണ് കാരണം ഒരു മാട്രിക്സ് ഒരിക്കൽ ഇൻവെർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഒരു യൂനിക് സൊല്യൂഷൻ ലഭിക്കുന്നു കൂടാതെ നമുക്ക് ഒരു യൂനിക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഫ്രീ വേരിയബിളുകളോ മറ്റ് വഴികളോ ഉണ്ടാകില്ല അതായത് A ഇൻവെർട്ടിബിൾ മാട്രിക്സ് ആണ് അതിനാൽ Ax0 യുടെ എല്ലാ സൊലൂഷനെയും ഈ വെക്ടർ ജനറേറ്റ് ചെയ്യുന്നു നമ്മൾ ഇപ്പോൾ കണ്ടത് Ax0 യുടെ എല്ലാ സൊലൂഷനെയും എന്നീ രണ്ട് വെക്റ്ററുകളുടെ സഹായത്തോടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു ഇവ ആൽഫ 1 ലും ആൽഫ 2 ലും ദൃശ്യമാകുന്നു അവ ഈ നിര രൂപത്തിൽ നൽകിയിട്ടുള്ളത് കാരണം നമ്മൾ ഈ ട്രാൻസ്പോസ് ഇവിടെ ഉപയോഗിച്ചു അതിനാൽ ഈ വെക്ടർകളെ Ax0 യുടെ സൊല്യൂഷന്റെ ജനറേറ്ററുകൾ എന്ന് വിളിക്കപ്പെടുന്നു അതാണ് നമ്മൾ നിരീക്ഷിച്ചത് ഈ ജനറേറ്ററുകൾ ബേസിസ് ആണ് ഈ പദം നമ്മൾ കുറച്ച് കഴിഞ്ഞ് അവതരിപ്പിക്കും ചില സാങ്കേതിക പദങ്ങൾ ഞാൻ ഇവിടെ പരാമർശിക്കുന്നു പക്ഷേ അവ അടുത്ത ലെക്ച്ചറിൽ ചർച്ചചെയ്യും അതിനാൽ ഇതിനുമുമ്പ് നമ്മൾ കണ്ട ഈ ജനറേറ്ററുകളെ ബേസിസ് എന്ന് വിളിക്കുന്നു കാരണം ഇവ സൊല്യൂഷന്റെ ജനറേറ്ററിന്റെ പ്രധാന ഘടകമാണ് അതിനാൽ ഇവയെ സൊല്യൂഷൻ സ്പേസിന്റെ ബേസിസ് എന്ന് വിളിക്കുന്നു ഒരു പദം കൂടി വന്നു ഈ Ax0 യുടെ സൊല്യൂഷൻ സ്പേസ് കാരണം ഈ Ax0 യുടെ അനന്തമായ നിരവധി സൊല്യൂഷനുകളുണ്ട് ഈ വെക്റ്ററുകളെ നമുക്ക് വളരെയധികം സൊല്യൂഷനുകളുള്ള സ്പേസിന്റെ ബേസിസ് എന്നും ആ സ്പേസിനെ നൾ സ്പേസ് എന്നും വിളിക്കുന്നു അത് അടുത്ത ലെക്ച്ചറിൽ വീണ്ടും ചർച്ചചെയ്യപ്പെടും അതെ ഇവിടെ നൾ സ്പേസ് കൃത്യമായി ഒരു വെക്റ്റർ സ്പേസ് ആണ് അതിനാൽ ഇവിടെ വീണ്ടും ഒരു ടേം കൂടി വെക്റ്റർ സ്പേസ് വന്നു അതിനാൽ ഇവിടെ സൊല്യൂഷൻ സ്പേസായ ഈ നൾ സ്പേസ് ഒരു വെക്റ്റർ സ്പെയ്സാണ് ഇവിടെ ഒരു സെറ്റിന്റെ ചില ഗുണങ്ങളുണ്ട് നമ്മൾ സംസാരിക്കുന്ന സൊല്യൂഷൻ സെറ്റിനെ പിന്നീട് ഒരു വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കും ഉദാഹരണത്തിന് നമ്മൾ രണ്ട് സൊല്യൂഷനുകൾ ചേർക്കുന്നു എങ്കിൽ പുതിയ സൊല്യൂഷൻ ഈ Ax0 യുടെ സൊല്യൂഷൻ ആയിരിക്കും എന്ന് നമുക്ക് കാണാം കാരണം x1 ഒരു സൊല്യൂനാണെങ്കിൽ Ax10 ഇത് തൃപ്തിപ്പെടുത്തും x2 ഒരു സൊല്യൂനാണെങ്കിൽ Ax20 ഇത് തൃപ്തിപ്പെടുത്തും ഈ Ax1Ax2 എന്നിവയും ആ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും കാരണം Ax1Ax2 വിൽ രണ്ടും 0 0 ആയതിനാൽ അതിനാൽ ഇവിടെ Ax0 യുടെ സൊലൂഷൻ സെറ്റിന് ചില നല്ല ഗുണങ്ങളുണ്ട് അവ ഏതെങ്കിലും രണ്ട് സൊല്യൂഷനുകൾ ചേർക്കുന്നു എങ്കിൽ അത് ഒരു സൊല്യൂഷനാകും അല്ലെങ്കിൽ ഈ സൊല്യൂഷന്ലേക്ക് നിങ്ങൾ n സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അത് ഒരു സൊല്യൂഷനുമാകും വെക്റ്റർ സ്പേസ്ന് ഉള്ള മറ്റ് നിരവധി പ്രോപ്പർട്ടികൾ ഉണ്ട് അടുത്ത ലെക്ച്ചറിൽ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യും ഇവിടെ ഉപസംഹരിക്കുന്നു സമവാക്യങ്ങളുടെ സിസ്റ്റത്തിന് ഈ എക്കലോൺ ഫോം വളരെ പ്രധാനമായിരുന്നു കൂടാതെ ഫ്രീ വേരിയബിളിന്റെ ഈ ആശയം നമ്മൾ അവതരിപ്പിക്കുകയും അടിസ്ഥാനപരമായി അനന്തമായ നിരവധി സൊല്യൂഷനുകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കൂടാതെ നോൺഹോമോജിനിയസ് സമവാക്യ സിസ്റ്റത്തിന്റെ സൊല്യൂഷന് ഈ പ്രത്യേക ഘടനയുണ്ട് തന്നിരിക്കുന്ന Axb തൃപ്തിപ്പെടുത്തുന്ന ഒരു സൊല്യൂൻ xp ഉണ്ട് നമുക്ക് ഇവിടെ Ax0 തൃപ്തിപ്പെടുത്തുന്ന ഒരു സൊല്യൂൻ xh എന്ന ഒരു പാർട്ടും ഉണ്ട് മൊത്തത്തിൽ ഈ x അർത്ഥമാക്കുന്നത് അത് ഈ Axb തൃപ്തിപ്പെടുത്തുന്നു എന്നാണ് ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ